സ്വാഗതം ഞങ്ങളുടെ മുൻ ലെക്ചർസുകളിൽ നിങ്ങൾ കണ്ടത് നമുക്ക് എങ്ങനെയാണ് ചില ടൈമിംഗ് അനാലിസിസ് നടത്താൻ കഴിയുക എന്നതാണ് ഇതിന്റെ സങ്കീർണ്ണത ഈ സർക്യൂട്ടിന്റെ വലുപ്പത്തിൽ രേഖീയമാണ് അതിനാൽ പാതകൾ നെറ്സ് എന്നിവ കണക്കാക്കാൻ വളരെ വലിയ സർക്യൂട്ടുകൾക്ക് ഇത് ഉപയോഗിക്കാം സജ്ജീകരണത്തെ ആശ്രയിച്ച് സ്ലാക്ക് മൂല്യങ്ങൾ ക്രമീകരിക്കാനും സമയ പരിമിതികൾ നിലനിർത്താനും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പക്ഷേ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞില്ല ഇവിടെ ഒരു സർക്യൂട്ട് നൽകി ഞങ്ങൾ ടോപ്പോളജിക്കൽ നെറ്റ്ലിസ്റ്റ് നോക്കി എല്ലാ വഴികളും കണ്ടെത്താൻ ശ്രമിക്കുന്നു ഈ സ്ലാക്കുകൾ കണക്കാക്കാൻ ശ്രമിക്കുക ഈ പൂജ്യം സ്ലാക്ക് അൽഗോരിതം ഉപയോഗിച്ച് അവയെ പൂജ്യങ്ങളായി ക്രമീകരിക്കുക എന്നാൽ ഞങ്ങൾ ഇതുവരെ പരിഗണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ പരിഗണിക്കുന്ന പാതകളെല്ലാം പരിഗണിക്കേണ്ടതാണ് എന്നതാണ് ചില പാതകൾ വളരെ നിർണായകവും വളരെ ദൈർഘ്യമേറിയതുമായി തോന്നിയേക്കാം പക്ഷേ പ്രായോഗികമായി ഇത് സംഭവിച്ചേക്കാം കാരണം ഈ സർക്യൂട്ടുകൾ ബ്ലോക്കുകളുടെ പ്രവർത്തനക്ഷമത കാരണം പ്രധാനപ്പെട്ടവയാണ് അതിനാൽ ഏത് തരത്തിലുള്ള സിഗ്നലിലൂടെ കടന്നുപോകാൻ കഴിയും അതിനാൽ സിഗ്നൽ സംക്രമണങ്ങൾക്ക് ഒരിക്കലും ആ നീണ്ട പാതയിലൂടെ ഒഴുകാൻ കഴിയാത്തവിധം ഗേറ്റുകളോ ബ്ലോക്കുകളോ ആകാൻ സാധ്യതയുണ്ട് അതായത് നിലവിലെ പ്രവർത്തനത്തിന്റെയോ രൂപകൽപ്പനയുടെയോ പശ്ചാത്തലത്തിൽ പ്രാധാന്യമില്ലാത്ത ഏത് സമയ വിശകലനവും ആ പാതയിലൂടെ നടത്തുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഫാൾസ് പാത് എന്നൊരു ആശയമുണ്ട് അതിനാൽ ഫാൾസ് പാത്ലൂടെ ഞങ്ങൾ ഭൌതികമായി നിലനിൽക്കുന്ന സർക്യൂട്ട് നെറ്റ്ലിസ്റ്റിലെ പാതകളെയാണ് പരാമർശിക്കുന്നത് എന്നാൽ ഈ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റിനെയോ ഡിഎജിയെയോ നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ടിലെന്നപോലെ യുക്തി അല്ലെങ്കിൽ പ്രവർത്തന പാതകളല്ല നേരിട്ടുള്ള ഒരു സൈക്ലിക് ഗ്രാഫായി ഒരു പാത ഉണ്ടാകും പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് പക്ഷേ നോഡുകളുടെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ആ ബ്ലോക്കുകൾ ഈ ബ്ലോക്കുകളുടെ പ്രോപ്പർട്ടി കാരണം ഒരിക്കലും സിഗ്നലിന്റെ ഒഴുക്കിന് കാരണമാകില്ല അതിനർത്ഥം ഞങ്ങൾ അതിനെ വിശദമായി നോക്കേണ്ട സെൻസിറ്റൈസേഷൻ എന്ന ആശയം ഉണ്ട് കൂടുതൽ വിശദമായി ഇൻപുട്ടുകളുടെ സംയോജനത്തിന് ഈ പാതകൾ ഒരിക്കലും ബോധവൽക്കരിക്കില്ല അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഇതുപോലുള്ള ഒരു ലളിതമായ ഉദാഹരണം നമുക്ക് എടുക്കാം 2 മൾട്ടിപ്ലക്സറുകൾ ഉണ്ട് ഇവയാണ് മൾട്ടിപ്ലക്സർ തിരഞ്ഞെടുത്ത ഇൻപുട്ട് ഉണ്ട് അതിനാൽ s 0 ആണെങ്കിൽ ഈ 0 ഇൻപുട്ട് തിരഞ്ഞെടുത്തു s 1 ആണെങ്കിൽ 1 ഇൻപുട്ട് തിരഞ്ഞെടുത്തു ഈ ചതുരാകൃതിയിലുള്ള ബോക്സുകൾ ചില സർക്യൂട്ട് മൊഡ്യൂളുകളാണ് അതിനാൽ ഞങ്ങൾ വിശദാംശങ്ങൾ കാണിക്കുന്നില്ല പക്ഷേ ഡിലേയ് യൂണിറ്റ് കാണിക്കുന്നു ഈ ബ്ലോക്കിന് 200 ഡിലേയ് യൂണിറ്റ് ഉണ്ട് ഇത് കോമ്പിനേഷണൽ സർക്യൂട്ട് ആകാം ഇത് മറ്റൊരു കോമ്പിനേഷൻ സർക്യൂട്ട് ആകാം 100 200 100 അതിനാൽ നിങ്ങൾ ഈ സർക്യൂട്ടിന്റെ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ STA നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പാത ഒരുപക്ഷേ ഈ 200 MUX ഡിലേയ് നിസ്സാരമെന്ന് കരുതുക 200 200 400 അതിനാൽ STA നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പാതയാകും ഈ 400 നിങ്ങൾ മിക്കവാറും ഈ STA യും തുടർന്നുള്ള തിരുത്തൽ നടപടികളും ഈ പാത ക്രമീകരിക്കുന്നതിന് പരമാവധി സമയം ചെലവഴിക്കേണ്ടിവരും അങ്ങനെ ഈ സ്ലാക്കുകൾ 0 ആയും മറ്റും എന്നാൽ നിങ്ങൾ പ്രവർത്തനം നോക്കിയാൽ മൾട്ടിപ്ലക്സറുകൾ ഉണ്ട് മൾട്ടിപ്ലക്സർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ തിരഞ്ഞെടുത്ത ലൈനുകൾ സജീവമാക്കുന്ന രീതി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനാൽ s 0 ന് തുല്യമാണെങ്കിൽ v തിരഞ്ഞെടുക്കപ്പെടുന്നു ഈ വശത്ത് ഒരു വിപരീതമുണ്ടെങ്കിൽ s 0 ആണ് ഇത് 1 ആയിത്തീരുന്നു അതിനാൽ x തിരഞ്ഞെടുത്തു അതിനാൽ ഡിലേയ് 100 പ്ലസ് 200 300 ആയിരിക്കും ഇപ്പോൾ 1 ന് തുല്യമാണെങ്കിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു ഇത് 0 ആയി മാറുന്നു അതിനാൽ ഈ y തിരഞ്ഞെടുത്തു അതിനാൽ ഇപ്പോൾ ഈ പാതയിലൂടെ സിഗ്നൽ ഒഴുകുന്നു വീണ്ടും ഡിലേയ് വരുത്തുന്നു അതിനാൽ നിങ്ങളുടെ നേരിട്ടുള്ള 400 ന്റെ ഒരു സൈക്ലിക് ഗ്രാഫ് പ്രദർശിപ്പിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പാത ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ല ഇതിനെ ഫാൾസ് പാത് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ബ്ലോക്കുകളുടെ പ്രവർത്തനമോ സർക്യൂട്ടിൽ ഉള്ള മൊഡ്യൂളുകളോ വിശകലനം ചെയ്തുകൊണ്ട് തെറ്റായ പാത തിരിച്ചറിയാൻ കഴിയും അതിനാൽ ടോപ്പോളജി നോക്കിയാൽ ഗ്രാഫിൽ ഏത് പാത തെറ്റാണെന്നോ ഏത് പാതയല്ലെന്നോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ഗേറ്റുകളുടെയോ ബ്ലോക്കുകളുടെയോ പ്രവർത്തനം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാത തിരിച്ചറിയാൻ കഴിയും ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് 400 നീളമുള്ള പാത അവഗണിക്കാം നിങ്ങൾക്ക് മറ്റ് പാതകൾ മാത്രമേ പരിഗണിക്കാനാകൂ തെറ്റായ പാത കണ്ടെത്തുന്നതിനും പരിഗണനയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുമുള്ള ഈ സുപ്രധാന നടപടി സ്വീകരിക്കുന്നതിന് പിന്നിലെ മറ്റൊരു പ്രചോദനം നിരവധി സർക്യൂട്ടുകൾ ഉണ്ട് അവിടെ ഗേറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ വരികളുടെ എണ്ണം നന്നായി വർദ്ധിക്കുന്ന നിരവധി പാതകൾ ഉണ്ട് ഒരു ക്ലാസിക്കൽ ഉദാഹരണം ഒരു ഗുണിതമാണ് അതിനാൽ സർക്യൂട്ടിന്റെ ഈ വലുപ്പം വളരുന്നതിനനുസരിച്ച് പാതകളുടെ എണ്ണം ക്രമാതീതമായി വലുതായിത്തീരുന്നു പ്രത്യേകിച്ചും ധാരാളം ഫാൻ ഔട്സ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് OR ഗേറ്റുകളുള്ള സർക്യൂട്ടുകൾക്ക് അത്തരം സാഹചര്യങ്ങൾ സംഭവിക്കുന്നു അതിനാൽ പ്രത്യേകിച്ചും ആ സർക്യൂട്ടുകൾക്ക് ഈ തെറ്റായ പാത തിരിച്ചറിയൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു അല്ലാത്തപക്ഷം മുഴുവൻ കാര്യങ്ങളുടെയും സങ്കീർണതയും ലീനിയർ എക്സ്പോണൻഷ്യൽ ആയിത്തീരുന്നു കാരണം പാതകളുടെ എണ്ണം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ മറ്റൊരു സാഹചര്യം നിങ്ങൾക്ക് മൾട്ടി സൈക്കിൾ പാതകൾ എന്ന് വിളിക്കാവുന്നതാണ് അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കിടയിൽ ചില കോമ്പിനേഷൻ ലോജിക് ഉണ്ട് എന്നാൽ ഒരു ഡിസൈനർ എന്ന നിലയിൽ ഇതിന് 2 ക്ലോക്ക് സൈക്കിൾ ഡിലേയ് ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇവിടെ സംഭരിക്കപ്പെടുന്ന ഡാറ്റ മൂല്യം 2 ക്ലോക്ക് പൾസുകൾക്ക് ശേഷം മാത്രമേ അർത്ഥവത്തായ വ്യാഖ്യാനം എടുക്കൂ അതിനാൽ 2 ക്ലോക്ക് പൾസിന് മുമ്പ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ വായിക്കില്ല അതിനാൽ ചില ഡിസൈൻ അങ്ങനെയായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ സർക്യൂട്ടിന്റെ ഈ കോമ്പിനേഷണൽ ഭാഗത്തിന് ടി യുടെ ആ ക്ലോക്ക് കാലയളവിനുള്ളിൽ ഡിലേയ് വരുത്തേണ്ടതില്ല അതിനാൽ വീണ്ടും നിങ്ങൾ ഈ സർക്യൂട്ടിലെ ടോപ്പോളജി മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആശയമോ വിവരമോ ആണ് കൂടാതെ ഒന്നിലധികം പാതകൾ ഉണ്ടെന്ന് കരുതുന്ന ചില പാതകൾ ഉണ്ടെന്ന് നിങ്ങൾ ഉപയോക്താവിൽ നിന്ന് അറിയേണ്ടതുണ്ട് സൈക്ലിംഗ് സ്വഭാവം അവ വിശ്രമിക്കുന്ന സമയ നിയന്ത്രണങ്ങൾ നന്നായി കൈകാര്യം ചെയ്യണം അതിനാൽ സമയ വിശകലന പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ സത്യവും തെറ്റും നിർണായകമായ വഴികൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥ നിർണായക വഴികൾ നിർണ്ണയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് എന്തുകൊണ്ട് സർക്യൂട്ട് പ്രവർത്തിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സൈക്കിൾ സമയം യഥാർത്ഥ നിർണായക പാതകൾ നിർണ്ണയിക്കുന്നതിനാൽ ഞാൻ നൽകിയ മൾട്ടിപ്ലക്സർ ഉദാഹരണം നിങ്ങൾ ചിന്തിക്കുന്നു ഒരു സർക്യൂട്ട് വ്യക്തമായും ഡിലേയ് 400 കാണിക്കുന്നു പക്ഷേ ആ 400 ഒരിക്കലും വരില്ല അതിനാൽ ആ 400 കണക്കിലെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ക്ലോക്ക് പിരീഡ് ഒരിക്കലും രൂപകൽപ്പന ചെയ്യുന്നില്ല കോമ്പിനേഷണൽ നെറ്റ്വർക്കിന്റെ പരമാവധി ഡിലേയ് ആയി നിങ്ങൾ 300 എടുക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ക്ലോക്ക് ഫ്രേക്യുഎൻസി അല്ലെങ്കിൽ പീരീഡ് രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ മന്ദഗതിയിലുള്ള മൂല്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ സാധാരണഗതിയിൽ നിർണായകമായ വഴികൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അവ നെഗറ്റീവ് ആയി വന്നാൽ മന്ദഗതിയിലുള്ള മൂല്യം ആ വരികൾക്ക് അത്ര നിർണായകമല്ല അതിനാൽ തെറ്റായ പാതകളെ വിമർശനാത്മകമായി അടയാളപ്പെടുത്താൻ നിങ്ങൾ അനാവശ്യമായി ശ്രമിക്കരുത് മാത്രമല്ല അവ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് അനാവശ്യമായി കുറച്ച് പരിശ്രമിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങൾ ഒരിക്കൽ തെറ്റായ വഴികൾ തിരിച്ചറിയുകയും അനാവശ്യമായ കൃത്രിമത്വമോ തെറ്റായ പാതകളുടെ കണക്കുകൂട്ടലോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം സ്റ്റാറ്റിക് ടൈമിംഗ് അനലൈസർ പോലുള്ള സ്റ്റാറ്റിക് ഡിലേയ് അനാലിസിസ് നിർമ്മിക്കുന്നത് ഡിലേയ് മോഡൽ ഏറ്റവും മോശം കേസ് ഡിലേയ് മോഡലാണ് ഇത് സമയ വിശകലനത്തിന്റെ പ്രശ്നമാണ് അതിനാൽ നിങ്ങൾ നോക്കൂ ഫങ്ക്ഷണൽ ടൈമിംഗ് അനാലിസിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് അതിനാൽ ഇത് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ബ്ലോക്ക് ആണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ നിന്നുള്ള ചില ഡാറ്റയിൽ നിന്നാണ് ഇവ നൽകുന്നത് കൂടാതെ ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഔട്ട്പുട്ട് പോകുന്നു ക്ലോക്ക് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും നൽകുന്നു ഇത് ഒരു T പീരീഡ് ആൺ ഇപ്പോൾ നിങ്ങൾ കാണുന്നു ഇവിടെ ക്ലോക്ക് വന്നതിനു ശേഷം ഒരു ശൂന്യതയും ഇല്ലെന്ന് കരുതുക കോമ്പിനേഷണൽ സർക്യൂട്ട് ഉള്ള ഇൻപുട്ടുകൾ അവർ എല്ലാ സമയത്തും പരിവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് കരുതുക T 0 0 ഇൻപുട്ട് ട്രാൻസിഷനുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടിനുള്ളിൽ ഒന്നിലധികം പാതകൾ ഉണ്ടാകാം അസമമായ കാലതാമസം കാരണം അവ സ്ഥിരത കൈവരിക്കുന്നതിന് മുമ്പ് ഔട്ട്പുട്ട് മാറുന്നുവെന്ന് കരുതുക അതിനാൽ നിങ്ങൾ കോമ്പിനേഷണൽ ബ്ലോക്ക് വിശകലനം ചെയ്യുകയും ഔട്ട്പുട്ട് സ്ഥിരപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെലവഴിക്കേണ്ട പരമാവധി ഡിലേയ് എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ അടുത്ത ക്ലോക്ക് വരുമ്പോൾ നിശ്ചിത സമയ പരിധിയും കണക്കിലെടുത്ത് സ്ഥിരമായ ഇൻപുട്ട് മൂല്യം തീർച്ചയായും ഇവിടെ ലഭ്യമാകണം ഈ ഏറ്റവും മോശം അവസ്ഥ ഡിലേയ് അനാലിസിസ് സാധാരണയായി ഫങ്ക്ഷണൽ ടൈമിംഗ് അനാലിസിസ്ലാണ് ചെയ്യുന്നത് അതിനാൽ സ്റ്റാറ്റിക് ടൈമിംഗ് അനലൈസറിലും നിങ്ങൾ സമാനമായ എന്തെങ്കിലും ചെയ്യുന്നു അതിനാൽ ടൈമിംഗ് അനാലിസിസിൽ അടിസ്ഥാനപരമായി ചില ഡിസൈൻ ഒരു നിശ്ചിത സമയ പരിമിതി പാലിക്കുന്നുണ്ടോയെന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി പരിശോധിക്കുന്നു ഈ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് പോലെ നിങ്ങൾ ഒരു നെറ്റ്ലിസ്റ്റ് നൽകി ആവശ്യമായ വരവ് സമയങ്ങൾ RAT കൾ പോലെ തന്നെ ചെയ്യുന്നു ചില സ്ലാക്ക് മൂല്യങ്ങൾ നെഗറ്റീവ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ കാണും ഇത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ ഈ സ്പെസിഫിക്കേഷൻ പാലിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിനാൽ ടൈമിംഗ് അനാലിസിസിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ് അതിനാൽ ടൈമിംഗ് അനാലിസിസിന്റെ തുടർന്നുള്ള ഘട്ടമായി നിങ്ങൾ ടൈമിംഗ് ഒപ്റ്റിമൈസേഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ഡിസൈനിന്റെ നിർണായക ഭാഗങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു ഉദാഹരണത്തിന് സ്ലാക്കുകൾ നെഗറ്റീവ് ആയ ഭാഗങ്ങൾ പോലെ നിർണായക ഭാഗങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ അവയിൽ ചില ഒപ്റ്റിമൈസേഷൻ നടത്തുന്നു അതിനാൽ നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സമയ പരിമിതികളും നിറവേറ്റപ്പെടും അതിനാൽ സ്ഥിരീകരണത്തിനും ഒപ്റ്റിമൈസേഷൻ ഘട്ടങ്ങൾക്കുമായി മികച്ചതാകാൻ നിങ്ങൾക്ക് ഉയർന്ന കൃത്യത കൈവരിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും അതായത് ഒരു ചെറിയ ഘട്ടത്തിൽ മോഡിഫയർ വീണ്ടും പരിശോധിക്കുക അതിനാൽ മുമ്പത്തെ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായ എസ്റ്റിമേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ഡിസൈൻ സൈക്കിളിൽ ഉടനീളം നിലനിൽക്കുന്ന ഡിസൈൻ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾ അത് മാറ്റേണ്ടതില്ല അതിനാൽ ടൈമിംഗ് അനാലിസിസിന്റെ അടിസ്ഥാന ആശയം അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നെയ്വ് അപ്പ്രോച്ച്ചാണ് നിങ്ങൾക്കുള്ളതെന്നാണ് എന്നാൽ സ്പൈസ് വളരെ കൃത്യതയുള്ള ഒരു സർക്യൂട്ട് സിമുലേഷൻ ഉപകരണമാണ് സ്പൈസ് വളരെ കൃത്യത പുലർത്തുകയും ട്രാൻസിസ്റ്റർ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ഇൻഡക്ടൻസ് തുടങ്ങിയ എല്ലാ സർക്യൂട്ട് ഘടകങ്ങളുടെയും മാതൃക സ്ഥാപിക്കുകയും ചെയ്യും കൂടാതെ ഇതിന് ട്രാൻസ്മിഷൻ ലൈനുകൾ പരസ്പരബന്ധങ്ങൾ വിവിധ മോഡലുകൾ ലഭ്യമാണ് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻ അല്ലെങ്കിൽ സർക്യൂട്ട് നെറ്റ് ലിസ്റ്റ് ഒരു തത്തുല്യ സർക്യൂട്ടിലേക്ക് വിവർത്തനം ചെയ്യുന്നു അതിൽ വോൾട്ടേജ് സോഴ്സ് കറന്റ് സോഴ്സ് കോൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കോൺട്രോൾഡ് കറന്റ് സോഴ്സ് R L C മൂല്യങ്ങൾ മുതലായവ ഉൾപ്പെടുന്നു തുടർന്ന് നിങ്ങൾ സാധാരണയായി ഒരു ട്രഡീഷണൽ സർക്യൂട്ട് അനാലിസിസ് നടത്തുന്നു വളരെയധികം കണക്കുകൂട്ടൽ ആവശ്യമാണ് എന്നാൽ നിങ്ങളുടെ സർക്യൂട്ട് മോഡൽ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വളരെ കൃത്യവും നിങ്ങൾ കെട്ടിച്ചമച്ച സർക്യൂട്ടുകളിൽ നിന്ന് പുറത്തുവരുന്ന യഥാർത്ഥ ജീവിത മൂല്യങ്ങളുമായി വളരെ അടുത്തുനിൽക്കും എന്നതാണ് നേട്ടം എന്നാൽ സർക്യൂട്ട് സിമുലേഷന്റെ കുഴപ്പം അത് മന്ദഗതിയിലായതിനാൽ ഇത് അർത്ഥമാക്കുന്നത് ധാരാളം കണക്കുകൂട്ടലുകൾ നടത്തുന്നു വലിയ സർക്യൂട്ടുകൾക്കായി നിങ്ങൾക്ക് സിമുലേഷൻ വർദ്ധിപ്പിക്കാൻ കഴിയില്ല ചെറിയ വലുപ്പത്തിലുള്ള സർക്യൂട്ടുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയൂ അതിനാൽ സ്പൈസ് സിമുലേഷൻ കൃത്യമാണ് പക്ഷേ വലിയ സർക്യൂട്ടുകൾക്ക് വളരെ ചെലവേറിയതാണ് അതിനാൽ നിങ്ങൾ ഗേറ്റ് ലെവൽ ടൈമിംഗ് വിശകലനത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം ഇത് തീർച്ചയായും സ്പൈസിനേക്കാൾ കൃത്യത കുറവായിരിക്കും പക്ഷേ ഇത് കൂടുതൽ കാര്യക്ഷമമായിരിക്കും നിങ്ങൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഉദാഹരണത്തിന് ദശലക്ഷക്കണക്കിന് സർക്യൂട്ട് നേടുക അതിനാൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ മുമ്പ് കണ്ടതെന്തും നിങ്ങളുടെ സമയ വിശകലനം പോലെ നിങ്ങളുടെ ഗേറ്റ് അല്ലെങ്കിൽ വയർ ഡിലേയ് മുൻകൂട്ടി വിവരിച്ചിരിക്കുന്നു ഇത് എന്റെ ഗേറ്റിന്റെ ഡിലേയ് ആണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരു ലളിതമായ മാതൃക നിങ്ങൾക്കുണ്ട് ഇത് എന്റെ വയറിന്റെ ഡിലേയ് വിപുലമായ കണക്കുകൂട്ടലിലൂടെയോ കംപ്യുറ്റേഷനിലൂടെയോ കടന്നുപോകാതെ കണക്കാക്കാൻ വഴികളുണ്ട് അതിനാൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചില ലളിതമായ ഡിലേയ് കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് ഒരു ടൈമിംഗ് അനാലിസിസ് നടത്താൻ കഴിയും യഥാർത്ഥത്തിൽ ഞങ്ങൾ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസും 0 സ്കെവ് അൽഗോരിതങ്ങളും ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ടത് അതാണ് അതിനാൽ ഈ ഉദാഹരണം നോക്കുക അതിനാൽ നിങ്ങൾ ഒരു ഗേറ്റ് ലെവൽ ടൈമിംഗ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കൂ ഈ സർക്യൂട്ട് എന്താണ് മനസ്സിലാക്കുന്നത് രണ്ട് AND ഗേറ്റുകളുണ്ട് ഈ AND ഗേറ്റിന്റെ ഔട്ട്പുട്ട് X1 X2 എന്നിവയുടെ AND മാത്രമാണ് അതിനാൽ ഈ Z ഉം X1 X2 കൂടാതെ X1 X2 എന്നിവയാണ് അതിനാൽ ഈ AND ഗേറ്റ് യഥാർത്ഥത്തിൽ ഈ പാതയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഈ പാത അനാവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഈ X1 നേരിട്ട് ഇവിടെ ലഭിക്കും X1 ഉം X2 ഉം X2 ആണ് അതിനാൽ ഗേറ്റ് ലെവൽ ടൈമിംഗ് അനാലിസിസ് വീണ്ടും നെയ്വ് അപ്പ്രോച്ച്ചാണ് കാരണം പ്രവർത്തനക്ഷമത നോക്കാതെ നിങ്ങൾ ഏറ്റവും ദൈർഘ്യമേറിയ പാത നിർണ്ണയിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ പറയുന്നത് എല്ലാ പാതകൾക്കും സിഗ്നൽ സംഭവങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് അതിനാൽ ഈ പാതയിലൂടെ ഒരു സിഗ്നൽ സംഭവവും പ്രചരിപ്പിക്കില്ല അവ ഈ പാതയിലൂടെയും ഈ പാതയിലൂടെയും പ്രചരിപ്പിക്കും അതിനാൽ ഈ പാത ഏറ്റവും ദൈർഘ്യമേറിയതാണ് അതിനാൽ അത് തെറ്റാണെങ്കിൽ ഗേറ്റ് ലെവൽ അനാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് എസ്റ്റിമേറ്റും നിങ്ങൾക്ക് ഒരു അമിതമായ എസ്റ്റിമേറ്റ് നൽകും അത് നിങ്ങൾക്ക് കൂടുതൽ ഡിലേയ് നൽകും അതിനാൽ ഞങ്ങൾ ഫങ്ക്ഷണൽ ടൈമിംഗ് അനാലിസിസ് നടത്തുമ്പോഴെല്ലാം നിങ്ങൾ തെറ്റായ പാത്ത് ബോധവൽക്കരണ സമയ അനാലിസിസ് നടത്തണം അതായത് നിങ്ങൾ തെറ്റായ പാത തിരിച്ചറിയുകയും അതനുസരിച്ച് നിങ്ങൾ എത്തിച്ചേരുന്ന സമയം കണക്കുകൂട്ടുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് Z ൽ ഒരു നല്ല എസ്റ്റിമേറ്റ് ലഭിക്കും കാരണം നിങ്ങൾ ടോപ്പോളജി നോക്കി അത് ചെയ്താൽ നിങ്ങൾക്ക് സാധാരണയായി വരവിനായി ഉയർന്ന മൂല്യം ലഭിക്കും ചിലപ്പോൾ കാരണം നിങ്ങൾ തെറ്റായ വഴികളും പരിഗണിക്കുന്നു ഒരു 2 ബിറ്റ് ക്യാരി സ്കിപ്പ് ആഡറിന്റെ ഒരു ഉദാഹരണം എടുക്കുക ഒരു ലളിതമായ ഉദാഹരണം 2 ജോടി ഇൻപുട്ട് a0 b0 a1 b1 എന്നിവയും ചില s0 s1 എന്നിവയും ക്യാരി ഔട്ട് നൽകുന്ന നെറ്റ് ലിസ്റ്റ് നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു മൾട്ടിപ്ലക്സർ ഇവിടെ ഒരു കൂട്ടിച്ചേർക്കലായിരിക്കാം അവിടെ നിങ്ങൾക്ക് ക്യാരി ഇൻ ചെയ്യാനും നിങ്ങൾക്ക് ചേർക്കാനും കഴിയും നിങ്ങൾ a1 b1 എന്നിവയുടെ xor എടുക്കുന്ന സർക്യൂട്ട് നേടുകയും ഈ ഇൻപുട്ടും എടുക്കുകയുമാണ് a1 b1 x0 a0 b0 എന്നിവയുടെ xor കൂടാതെ തിരഞ്ഞെടുത്ത വരയായി പൂരിപ്പിക്കുക അതായത് ഇത് ക്യാരി പ്രൊപഗേറ്റ് കണ്ടിഷൻ സൂചിപ്പിക്കുന്നു അതിനാൽ ഒരു പ്രൊപഗേറ്റ് കണ്ടിഷൻ ഉണ്ടെങ്കിൽ കാണുന്നതെന്തും ഔട്ട്പുട്ട്ടിലേക്ക് പ്രചരിപ്പിക്കും അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ലൈനിനൊപ്പം പ്രചരണം നടത്തുന്നു എന്നാൽ നിങ്ങൾ ഏറ്റവും ദൈർഘ്യമേറിയ പാത കണക്കാക്കിയാൽ ഏറ്റവും ദൈർഘ്യമേറിയ പാത ഇതാണ് എന്നാൽ ഇത് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കേസ് അവതരിപ്പിച്ചു യഥാർത്ഥത്തിൽ ഈ ദൈർഘ്യമേറിയ പാതയ്ക്ക് ക്യാരി ഈ വേഗതയേറിയ പാതയിലൂടെ ഇതിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ ഈ ടോപ്പോളജിക്കൽ വിശകലനം ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് അടിസ്ഥാന ആശയമാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതിനാൽ ഫാൾസ് പാഥ് അനാലിസിസിലേക് നമുക്ക് നോക്കാം ഇപ്പോൾ ചില അടിസ്ഥാന ആശയങ്ങൾ അതിനാൽ ഒരു ഇൻപുട്ടിൽ നിന്ന് നൽകിയ ഔട്ട്പുട്ട്ടിലേക്കുള്ള ഡിലേയ് പാത്ത് യഥാർത്ഥത്തിൽ ഉത്തരവാദിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അത് ഇല്ലെങ്കിൽ ആ പാത അവഗണിക്കുക ആ പാത പരിഗണിക്കേണ്ട ആവശ്യമില്ല അതിനാൽ നീണ്ട പാതകൾ തെറ്റായ പാതയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നു മുഴുവൻ പാതയും തെറ്റല്ലെന്ന് നിങ്ങൾ കാണാനിടയുണ്ട് പക്ഷേ അതിന്റെ ഒരു ഭാഗമെങ്കിലും തെറ്റാണ് പാത തെറ്റാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വഴികളുണ്ട് ഞങ്ങൾ പിന്നീട് കുറച്ച് തന്ത്രങ്ങൾ നോക്കും ഇപ്പോൾ നിങ്ങൾ ഡിലേയ് കുറച്ചുകാണുന്നത് കാണുന്നു തെറ്റായ പാത നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ചിലപ്പോൾ പറയുന്നു ഞങ്ങൾ യഥാർത്ഥത്തിൽ ഡിലേയ് വരുത്തുന്നു ഞങ്ങൾ കണക്കുകൂട്ടുന്നു ഇത് ശരിയല്ല യഥാർത്ഥ ഡിലേയ് കുറവായിരിക്കണം സിഗ്നൽ പ്രചരിപ്പിക്കുന്ന ചില വഴികൾ തെറ്റാണ് പക്ഷേ ഫാൾസ് പാത് കണ്ടെത്തുന്നതിനുള്ള ചില നേവ് രീതികൾ എനിക്ക് ഒരു ചെറിയ പാതയുണ്ടെന്ന് പറഞ്ഞേക്കാം എന്റെ ഡിലേയ് ഇതായിരിക്കണം പക്ഷേ ആ നീണ്ട പാതയ്ക്ക് ചില കേസുകളിൽ ഒരു പങ്കു വഹിക്കാനാകും നിങ്ങളെപ്പോലെ ഡിലേയ് ഫലപ്രദമായി കുറച്ചുകാണുക നിങ്ങൾ ഒരു ഡിലേയ് കുറച്ചുകാണുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകാം കാരണം നിങ്ങൾ ചില സമയ ലംഘനം അവഗണിച്ചേക്കാം മറുവശത്ത് കണക്കാക്കുന്നതിൽ ഡിലേയ് അഭികാമ്യമല്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ അവ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയും സ്വീകരിക്കാം അത് നിങ്ങൾക്ക് തെറ്റായ ഫലം നൽകില്ല അതിനാൽ ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ലളിതമായ രീതി ഇത് ബൂളിയൻ ഡിഫറെൻസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾ ഒരു പാത പരിഗണിക്കുന്നത് കാണുക f0 f1 f2 fn പരിഗണിക്കുക ഇവയാണ് നോഡുകൾ ആശയം ഇങ്ങനെയാണ് നിങ്ങൾ f0 ൽ ആരംഭിക്കുക f1 f2 വരെ fn വരെ ഉണ്ടാകും ഈ നോഡുകൾ r ഫങ്ഷണൽ ബ്ലോക്കുകളെ സൂചിപ്പിക്കാം അല്ലെങ്കിൽ ഗേറ്റുകൾ അതിനാൽ ഈ ബൂളിയൻ ഡിഫറെൻസ് അത് എന്താണ് പറയുന്നത് നമുക്ക് പൊതുവായി ഒരു ബ്ലോക്ക് fi എടുക്കാം എന്നാണ് അത് പറയുന്നത് അതിനാൽ fi മൈനസ് 1 ൽ നിന്ന് അതിന്റെ ഇൻപുട്ട് ലഭിക്കുന്നു അതിനാൽ ബൂലിയൻ ഡിഫറെൻസ് ഇതുപോലുള്ള ചോദ്യങ്ങൾ പറയുന്നത് fi മൈനസ് 1 ൽ ഒരു സിഗ്നൽ ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ ഒരു സിഗ്നൽ ട്രാൻസിഷൻ ലഭിക്കുമോ എന്ന് പറയുന്നു fi യുടെ ഔട്ട്പുട്ട്ടിൽ അതെ അല്ലെങ്കിൽ ഇല്ല ഈ സിഗ്നൽ സംക്രമണത്തിന് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ചില ഇൻപുട്ടുകളുടെ നിലവിലുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് നല്ലതാണ് എന്നാൽ ഈ പാതയിൽ ചില ജോഡി fi മൈനസ് 1 ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ നമുക്ക് ഇവിടെ പറയാം ഇതിനായി സിഗ്നലിന് പ്രചരിപ്പിക്കാൻ കഴിയില്ല അതായത് ഈ പാത മുഴുവൻ തെറ്റായ പാതയാണ് ഈ സിഗ്നലിന് ഇതിലൂടെ പ്രചരിപ്പിക്കാൻ കഴിയില്ല അതിനാൽ അത്തരം എല്ലാ ബ്ലോക്കുകളിലുടനീളം നിങ്ങൾ ബൂലിയൻ ഡിഫറെൻസ് കണക്കുകൂട്ടിയാൽ ജോഡി തിരിച്ചും ഇവിടെ ഒരു സംക്രമണം ഇവിടെ പ്രചരിപ്പിക്കാനാകുമെന്ന് സ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പാത തെറ്റായ പാതയല്ലെന്ന് നിങ്ങൾക്ക് പറയാം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനാവില്ല അതിനാൽ ബൂളിയൻ ഡിഫറെൻസ് യഥാർത്ഥത്തിൽ ബ്ലോക്ക് fi യ്ക്കും fi മൈനസ് 1 നും ഇടയിലാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇത് ഡെൽ നൊട്ടേഷൻ ഡെറിവേറ്റീവ് നോട്ടേഷൻ ഡെൽ fi എന്നിവയിൽ ഉപയോഗിക്കുന്നു ഡെൽ fi എന്നാൽ fi മൈനസ് 1 ൽ മാറ്റമുണ്ടെങ്കിൽ fi യിൽ മാറ്റം ഉണ്ടാകുമോ അതിനാൽ ഇത് ലോജിക് എക്സ്പ്രഷൻ ബൂളിയൻ എക്സ്പ്രഷൻ നൽകുന്നു അതിനാൽ നിങ്ങൾ അത് പരിഹരിക്കുകയാണെങ്കിൽ നിങ്ങൾ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒന്നോ അല്ലെങ്കിൽ പൂജ്യമോ ആയ ഫംഗ്ഷൻ 0 ന് തുല്യമാണ് അതായത് ഇത് സാധ്യമല്ല അല്ലെങ്കിൽ ഇൻപുട്ട് വേരിയബിളുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ ലഭിക്കും അത് ഏത് ഇൻപുട്ട് കോമ്പിനേഷനുകൾക്ക് ഇത് സാധ്യമാണെന്ന് നിങ്ങളോട് പറയുന്നു അതിനാൽ ഫൈനൽ ഔട്ട്പുട്ട് f0 ലെ മാറ്റത്തിന് സെൻസിറ്റീവ് ആയിരിക്കും മൂല്യങ്ങളിലെ ഈ ഡെൽ fi എല്ലാം നോൺ നൽ മൂല്യങ്ങൾ നൽകുന്നുവെങ്കിൽ നിങ്ങൾ ഉൽപ്പന്നം എടുക്കുകയാണെങ്കിൽ അന്തിമ ഉൽപ്പന്നം നോൺ നൽ ആയിരിക്കും ഇതാണ് അടിസ്ഥാന ആശയം അതിനാൽ ഞാൻ ഒരു ലളിതമായ ഉദാഹരണം എടുക്കും ഒരു മൾട്ടിപ്ലക്സറിന്റെ അതേ ഉദാഹരണം എടുക്കും അതിനാൽ നമുക്ക് ഫൈ എടുക്കാം അതിനാൽ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ u ഉം v ഉം ഇൻപുട്ടുകളും s ഉം സെലക്ട് ആണ് അതിനാൽ s 0 v ആണെങ്കിൽ s 1 u ആണെങ്കിൽ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം s u s v അതുപോലെ fj s 0 ആണെങ്കിൽ ഇത് 1 ആണ് അല്ലാത്തപക്ഷം അടുത്തത് അതിനാൽ fj എനിക്ക് ഇത് പോലെ എഴുതാം s x s y ഞാൻ del fi del u എന്നാൽ ഞാൻ എന്നാണെങ്കിൽ ഒരു ബൂളിയൻ ഡിഫറെൻസ് നിർവ്വചനം ഇങ്ങനെയാണ് അതിനാൽ ഏതെങ്കിലും f ഫംഗ്ഷനുവേണ്ടി ശ്രദ്ധിക്കുക അതിനാൽ ബൂളിയൻ ഡിഫറെൻസ് del f del ചില ഇൻപുട്ട് വേരിയബിളുകൾ x എന്ന് പറഞ്ഞാൽ ധാരാളം ഇൻപുട്ട് ഇൻപുട്ടുകൾ ഉണ്ട് അതിലൊന്ന് x ആണ് ഇതിനർത്ഥം x 0 ന് തുല്യമായ ഫംഗ്ഷന്റെ മൂല്യം എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഫംഗ്ഷന്റെ മൂല്യം x 1 ന് തുല്യമാകുമ്പോൾ എന്നാണ് ഇതിനർത്ഥം x മാറുകയാണെങ്കിൽ f ന്റെ ഔട്ട്പുട്ട് മാറുമോ ഈ പദപ്രയോഗം യഥാർത്ഥത്തിൽ x നെ സംബന്ധിച്ചിടത്തോളം f എത്ര സെൻസിറ്റീവ് ആണെന്ന് നിങ്ങളോട് പറയുന്നു ബൂളിയൻ ഡിഫറെൻസിന്റെ നിർവചനം ഇതാണ് അതിനാൽ ഇവിടെ del fi del u ആകും നിങ്ങൾ ഇപ്പോൾ ആ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണിച്ചുതന്നു നിങ്ങൾ ഒരു ലളിതവൽക്കരണം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് del fi del u s മാത്രമാണെന്ന് കാണാം അതുപോലെ തന്നെ j del fj del x s ബാറിൽ വരുന്നു അതിനാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ വഴിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ yx മുതൽ fj ഞാൻ ഈ 2 ഫംഗ്ഷനുകളുടെ ഉൽപ്പന്നം ചെയ്താൽ s s ബാർ റദ്ദാക്കുന്നത് കാണാം 0 ആകുകയും ചെയ്യും ഇതിനർത്ഥം ഇതൊരു തെറ്റായ പാതയാണ് സിഗ്നലിന് കഴിയില്ല u മുതൽ fi fi pi x മുതൽ fj വരെ ഒരുമിച്ച് പ്രചരിപ്പിക്കുക ഒരു ഫാൾസ് പാത് തിരിച്ചറിയാൻ ബൂളിയൻ ഡിഫറെൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനുള്ള ലളിതമായ ഉദാഹരണമാണിത് അതിനാൽ പാത സെൻസിറ്റീവ് അല്ല തെറ്റാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന അടുത്ത രീതിയിൽ ഞങ്ങൾ ചില ആശയങ്ങൾ ഉപയോഗിക്കും അതിനാൽ ഈ പ്രഭാഷണത്തിൽ നമുക്ക് കുറച്ച് ആശയങ്ങളും നിർവചനങ്ങളും പരിചയപ്പെടുത്താം ഓരോ ലളിതമായ ഗേറ്റിനും ഞങ്ങൾ ഒരു നിയന്ത്രണ മൂല്യം എന്നും ഒരു നിയന്ത്രണമില്ലാത്ത മൂല്യം എന്നും വിളിക്കുന്നു നിയന്ത്രിക്കുന്ന മൂല്യം എന്നാൽ ഈ മൂല്യം ഇൻപുട്ടുകളിലൊന്നിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ഔട്ട്പുട്ട് അദ്വിതീയമായി നിർണ്ണയിക്കും നിയന്ത്രിതമല്ലാത്ത മൂല്യം എന്നാൽ ആ വഴിയല്ല നിയന്ത്രണ മൂല്യം കാണുക ഇൻപുട്ട് ഗേറ്റുകളുടെ ഔട്ട്പുട്ട് നിർണ്ണയിക്കുന്നു മറ്റ് ഇൻപുട്ടുകളിൽ നിന്ന് സ്വതന്ത്രമായി ഒരു ഉദാഹരണം എടുക്കുക എനിക്ക് 3 ഇൻപുട്ടും AND ഗേറ്റും ഉണ്ടെന്ന് കരുതുക അതിനാൽ ഞങ്ങൾ ഈ ഇൻപുട്ട് പരിഗണിക്കുന്നു അതിനാൽ ഞാൻ ഈ ഇൻപുട്ടിന് 0 ആയി പ്രയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും മറ്റ് 2 ഇൻപുട്ടുകൾ പരിഗണിക്കാതെ ഔട്ട്പുട്ട് 0 ആയിരിക്കും അതിനാൽ ഇവിടെ 0 ആണ് നിയന്ത്രിക്കുന്ന ഇൻപുട്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഞാൻ 1 പ്രയോഗിച്ചാൽ ഔട്ട്പുട്ട് ഉപയോഗിച്ച് എനിക്ക് പറയാൻ കഴിയില്ല ഔട്ട്പുട്ട് മറ്റ് ഇൻപുട്ടുകളെ ആശ്രയിച്ചിരിക്കും അത് ഒരു നിയന്ത്രണമില്ലാത്ത മൂല്യമാണ് അതുപോലെ ഒരു OR ഗേറ്റിന് ഇത് ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഗേറ്റ് ആണെന്ന് നമുക്ക് വീണ്ടും പറയാം അതിനാൽ ഞാൻ 1 പ്രയോഗിച്ചാൽ ഔട്ട്പുട്ട് മറ്റുള്ളവയെ പരിഗണിക്കാതെ 1 ആയിരിക്കും ഇത് ഒരു OR അവകാശത്തിനുള്ള നിയന്ത്രണ മൂല്യമാണ് ഇത് നിയന്ത്രിക്കുന്നതിനും നിയന്ത്രിക്കാത്ത മൂല്യത്തിനും അപ്പുറമുള്ള ആശയമാണ് അതിനാൽ ഇത് ബൂളിയൻ ഡിഫറെൻസ് ആശയത്തിൽ നിന്ന് പിന്തുടരുന്നു നിങ്ങൾ ഒരു b കാണുന്നു അതിനാൽ ഇത് കൂടാതെ ഇത് AND അപ്പോൾ del f del a എന്തായിരിക്കും നമുക്ക് ഒരു കണക്കുകൂട്ടൽ നടത്താം 2 ഇൻപുട്ടും AND ഗേറ്റും a b ഔട്ട്പുട്ട് f b ന് തുല്യമാണ് അതിനാൽ a യുമായി ബന്ധപ്പെട്ട് f ന്റെ ബൂളിയൻ ഡിഫറെൻസ് ഞാൻ കണക്കാക്കിയാൽ അതിനാൽ x എന്നത് 0 ന് തുല്യമായ ഫംഗ്ഷൻ a എന്നത് 0 XOR ന് തുല്യമായ ഫംഗ്ഷൻ 1 ന് തുല്യമാകുമ്പോൾ നിങ്ങൾ നിർവചനം ഓർക്കുന്നു അതിനാൽ 0 ന് തുല്യമാകുമ്പോൾ മുഴുവൻ പ്രവർത്തനവും 0 XOR 1 ന് തുല്യമാണെങ്കിൽ ഫംഗ്ഷൻ b 0 XOR b b ആണ് അതിനാൽ del f del a b ആണ് del g del a b ബാർ ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംവേദനക്ഷമതയ്ക്കുള്ള വ്യവസ്ഥ നൽകുന്നു അതിനാൽ b എന്നതിന് തുല്യമായ del f del എന്നാൽ എന്താണ് del f del a b മുതൽ b എന്നതിനർത്ഥം എനിക്ക് അത് വേണമെങ്കിൽ a ശരിയാണെന്നതാണ് അതിനാൽ a മുതൽ b വരെ സിഗ്നൽ പ്രചാരണത്തിന്റെ അവസ്ഥ എന്താണ് അപ്പോൾ ഈ അവസ്ഥ സത്യമായിരിക്കണം അതായത് b 1 ന് തുല്യമായിരിക്കണം ഈ പ്രവർത്തനം ശരിയാകണം അതിനാൽ b 1 ആണെങ്കിൽ ഒരു സിഗ്നൽ സംക്രമണം മാത്രമേ ഇവിടെ പ്രചരിപ്പിക്കൂ അതുപോലെ ഒരു OR ഗേറ്റിനായി അതിനാൽ നിങ്ങൾ സമാനമായ ഒരു കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ del f del a b ബാർ ആയിരിക്കും അതായത് ഈ കേസിൽ നിങ്ങൾക്ക് സിഗ്നൽ പ്രചരിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ b ബാർ സത്യമായിരിക്കണം 0 ആകാൻ ഇത് നിങ്ങൾക്ക് സിഗ്നൽ പ്രചരണത്തിനുള്ള വ്യവസ്ഥ നൽകുന്നു ഇത് ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യുന്ന ഞങ്ങളുടെ അടുത്ത രീതി ഉപയോഗിക്കും അതിനാൽ ഈ ഡയഗ്രാമിൽ ചുരുക്കിപ്പറയാൻ ഞാൻ അടിസ്ഥാന ഗേറ്റുകൾ നിയന്ത്രണങ്ങൾ നിയന്ത്രണമില്ലാത്ത മൂല്യങ്ങൾ എന്നിവയ്ക്കായി കാണിക്കുന്നു AND യ്ക്ക് 0 എന്നത് നിയന്ത്രണ മൂല്യമാണ് 1 എന്നത് നിയന്ത്രണമില്ലാത്ത മൂല്യമാണ് അല്ലെങ്കിൽ 1 ആണ് നിയന്ത്രിക്കുന്നത് 0 എന്നത് നിയന്ത്രണമില്ലാത്തതാണ് NAND ന് സമാനമാണ് NAND ഗേറ്റിനും 0 നിയന്ത്രിക്കും NOR ഗേറ്റിനും 1 നിയന്ത്രിക്കും അതിനാൽ ഇത് ഓർക്കുക പക്ഷേ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ ഒരു രീതി നോക്കും അവിടെ ഗേറ്റുകൾക്ക് കുറുകെ ഒരു സിഗ്നൽ സംവേദനം ചെയ്യേണ്ടിവരും ഞങ്ങൾക്ക് ഈ ആശയങ്ങൾ ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു